ഹാഷ് ജോയിൻ എന്ന അടുത്ത അൽഗോരിതത്തിലേക്ക് നമുക്ക് പോകാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അൽഗോരിതം ആണ് കൂടാതെ മുമ്പത്തേതിനേക്കാൾ അൽപ്പം സങ്കീർണ്ണവുമാണ് ഒരിക്കൽ കൂടി ഇത് ബാധകമാകുന്നത് കണ്ടിഷൻ ഈക്വാലിറ്റി ആയിരിക്കുമ്പോൾ മാത്രമാണ് അതായത് ഇത് ഒരു ഈക്വാലിറ്റി ജോയിൻ ആണ് അതിനാൽ ആശയം ഇനിപ്പറയുന്നവയാണ് ഒരു tr എന്ന റെക്കോർഡും ts എന്ന റെക്കോർഡും എടുക്കുക അത് ഒരു ഈക്വാലിറ്റി ജോയിൻ ആയതിനാൽ അവ തുല്യമായിരിക്കണം അതിനർത്ഥം അവ ഒരേ സ്ഥാനത്തേക്ക് ഹാഷ് ചെയ്യണം എന്നാണ് അതിനാൽ ഇത് അപ്ലൈ ചെയ്യുന്ന ഒരു ഹാഷിംഗ് ഫംഗ്ഷനാണെങ്കിൽ അവ അതേ സ്ഥാനത്തേക്ക് ഹാഷ് ആയിരിക്കണം അതിനാൽ താഴെപ്പറയുന്നവയാണ് ചെയ്യുന്നത് ഒന്നാമതായി r s എന്നീ റിലേഷനുകൾ ഒരേ ഹാഷ് ടേബിളിലേക്ക് ഹാഷ് ചെയ്യുന്നു തുടർന്ന് ഈ ഓരോ ഹാഷ് ബക്കറ്റുകളിൽ നിന്നും മാച്ചിങ് റെക്കോർഡുകൾ ഒന്നിനുപുറകെ ഒന്നായി എടുക്കുന്നു അതിനാൽ അതാണ് മുഴുവൻ അൽഗോരിതവും കൂടാതെ റെക്കോർഡുകൾ പാർട്ടീഷൻ ചെയ്യാൻ ഒരു ഹാഷ് ഫംഗ്ഷൻ ഉണ്ട് അതിനാൽ ഹാഷ് ഫംഗ്ഷൻ റിലേഷൻ മെമ്മറിയിൽ ഫിറ്റ് ആവുന്നില്ലെങ്കിൽ ഈ ഹാഷ് ഫംഗ്ഷൻ അതിനെ പാർട്ടീഷൻ ചെയ്യേണ്ടതുണ്ട് തുടർന്ന് അതിനെ പാർട്ടീഷൻ ഹാഷ് ജോയിൻ എന്ന് വിളിക്കുന്നു അൽഗോരിതം എന്താണ് ചെയ്യുന്നത് എന്നാൽ അതിനാൽ ഹാഷ് ടേബിൾ എൻട്രികൾ 0 മുതൽ n 1 വരെ ആണെന്ന് കരുതുക അതിനാൽ അവിടെ n എൻട്രികൾ ഉണ്ട് അതിനാൽ ഓരോ റെക്കോർഡും r s എന്നിവയുടെ ഓരോ റെക്കോർഡും അതിനാൽ ഇത് ഉം ഉം ആണെന്ന് പറയുക ഇവ r s എന്നിവയുടെ പാർട്ടീഷനുകൾ ആണ് ഇതിനർത്ഥം അടിസ്ഥാനപരമായി tr ന്മേലുള്ള ഹാഷ് ഫംഗ്ഷൻ i ആണ് തുടർന്ന് അത് പാർട്ടീഷൻ ലേക്ക് പോകുന്നു ts ന്റെ ഹാഷ് ഫംഗ്ഷൻ i ആണ് തുടർന്ന് അത് ന്റെ ഹാഷ് ബക്കറ്റിലേക്കു ഹാഷ് ഫംഗ്ഷനിലേക്ക് പോകുന്നു അത് ചെയ്തുകഴിഞ്ഞാൽ പാർട്ടീഷൻ റീഡ് ചെയ്യുന്നു അതിനാൽ ഇവ പാർട്ടീഷനുകളാണ് ഈ ടേബിൾ പൂർത്തിയാകുമ്പോൾ ഈ എന്ന പാർട്ടീഷൻ ൽ നിന്നുള്ള പാർട്ടീഷനുകളിൽ ഒന്ന് റീഡ് ചെയ്തു അതിനാൽ ഇത് മെമ്മറിയിലേക്ക് റീഡ് ചെയ്യുകയും മെമ്മറിയിൽ ഹാഷ് ഇൻഡെക്സ് നിർമ്മിക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ പാർട്ടീഷൻ ഹാഷ് ഫങ്ക്ഷൻ ഡിസ്കിന് പുറത്താണെന്ന് ഓർക്കുക അതിനാൽ ഇത് ഒരു ഡിസ്ക് തലത്തിലാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ ഇത് ട്യൂപ്പിളുകളെ ഒരു ഡിസ്ക് ബേസ്ഡ് പാർട്ടീഷനായി വിഭജിക്കുന്നു അതിനാൽ ഓരോ പാർട്ടീഷനും ഡിസ്കിൽ വെവ്വേറെ സ്ഥാനത്താണ് അത് റീഡ് ചെയ്തു കഴിഞ്ഞാൽ ഈ പാർട്ടീഷനു വേണ്ടി മാത്രം ഒരു ഇൻ മെമ്മറി ഹാഷ് നിർമ്മിക്കുന്നു ഓരോ മെമ്മറി ഹാഷ് ക്കു മാത്രം അതിനാൽ ലെ എല്ലാ ട്യൂപ്പിളുകളും ഒരു ഇൻ മെമ്മറി ഹാഷ് ഫംഗ്ഷൻ നിർമ്മിച്ചിട്ടുണ്ട് തുടർന്ന് സംഭവിക്കുന്നത് എന്താണെന്നാൽ ഈ ഹാഷ് പാർട്ടീഷൻ ൽ ഉള്ള എല്ലാ റെക്കോർഡ് tri ക്കും അതിനാൽ ഇതിനെ പ്രോബ് എന്ന് വിളിക്കുന്നു അതിനാൽ അനുബന്ധ മാച്ചിങ് ട്യൂപ്പിളുകൾ കണ്ടെത്താനുള്ള പ്രോബ് ആണിത് അതിനാൽ ഇത് ഒരു ബിൽറ്റ് ആണ് കാരണം ഒരു ഇൻ മെമ്മറി ഹാഷ് നിർമ്മിക്കുകയും tri പ്രോബ് ചെയ്യുകയും ചെയ്യുന്നു അതിനാലാണ് ചില നാമകരണങ്ങൾ ഉപയോഗിക്കുന്നത് അതിനാൽ s നെ ബിൽഡ് ഇൻപുട്ട് എന്ന് വിളിക്കുന്നു കാരണം s നെ ഇൻ മെമ്മറി ഹാഷ് ഫംഗ്ഷൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു അതേസമയം r നെ പ്രോബ് ഇൻപുട്ട് എന്ന് വിളിക്കുന്നു കാരണം r ൽ നിന്നുള്ള ട്യൂപ്പിളുൾ മറ്റു റിലേഷനായി നിർമ്മിച്ച ഈ ഇൻ മെമ്മറി ഹാഷ് ഫംഗ്ഷൻ പ്രോബ് ചെയ്യാൻ ഉപയോഗിക്കുന്നു അതിനാൽ ഇത് നമ്മൾ ഓർത്തിരിക്കണം അതിനാൽ രണ്ട് കാര്യങ്ങളാണ് ബിൽഡ് റിലേഷൻസിന്റെ ഓരോ പാർട്ടീഷനും മെമ്മറിയിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈ മുഴുവൻ പ്രൊസീജറും അർത്ഥവത്താകുന്നില്ല സ്ലൈഡ് സമയം 0400 കാണുക അതിനാൽ ബിൽഡ് റിലേഷൻ ചെറുതായിരിക്കണം അതിനാൽ ഏതാണോ ചെറുത് അതായിരിക്കണം ബിൽഡ് റിലേഷൻ അതിനാൽ r നും s നും ഇടയിൽ s ചെറുതാണെങ്കിൽ ബിൽഡ് റിലേഷൻ s ആയിരിക്കണം ഇനി നമുക്ക് ഇതിന്റെ സൈസസ് വിശകലനം ചെയ്യാം അതിനാൽ n പാർട്ടീഷനുകൾ ഉണ്ടെന്ന് കരുതുക ഇപ്പോൾ ഓരോ പാർട്ടീഷനും മെമ്മറിയിൽ ഉൾക്കൊള്ളണം ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഒരു ഇൻവേരിയന്റ് ഒരു മെമ്മറിയിലെ ബ്ലോക്കുകളുടെ എണ്ണം ബ്ലോക്കുകളുടെ എണ്ണത്തിലുള്ള മെമ്മറി സൈസ് ആണിത് ബിൽഡ് റിലേഷന് bs ബ്ലോക്കുകൾ ഉണ്ടെന്നു കരുതുക ഇപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത് എന്നാൽ ആണ് എന്തുകൊണ്ട് ഇത് ആവശ്യമാണ് കാരണം ബിൽഡ് റിലേഷന്റെ ആകെ എണ്ണം M ആണ് അവ ഓരോന്നും M ൽ ഫിറ്റ് ആവുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് സംഖ്യ നൽകുന്നു അഥവാ അത്രയും എണ്ണം പാർട്ടീഷനുകൾ കൈകാര്യം ചെയ്യാനാവും എന്നത് കൂടാതെ n അതിലും കൂടുതലായിരിക്കണം അതിനാൽ അതിനർത്ഥം n അതിനേക്കാൾ കൂടുതലാണെങ്കിൽ യഥാർത്ഥ പാർട്ടീഷനുകളുടെ എണ്ണം അതിനേക്കാൾ കൂടുതലാണെങ്കിൽ ഓരോ പാർട്ടീഷന്റെയും വലുപ്പം ഫിറ്റ് ചെയ്യാനാവുന്നതിനേക്കാൾ കുറവായിരിക്കും അതിനാൽ തീർച്ചയായും മറ്റൊരു കണ്ടിഷൻ ആണ് കാരണം ഓരോ പാർട്ടീഷനും ഫിറ്റ് ആവണം അതിനാൽ പാർട്ടീഷനുള്ളിലെ എല്ലാം മെമ്മറിയിലും മെമ്മറി സൈസുകളുടെ എണ്ണത്തിലും ഫിറ്റ് ആവുന്നതായിരിക്കണം അതിനാൽ ഓരോ പാർട്ടീഷനിൽ നിന്നും ഒരു ബ്ലോക്ക് റീഡ് ചെയ്യണം അതിനാൽ എല്ലാ പാർട്ടീഷനിൽ നിന്നും ഒരു ബ്ലോക്ക് റീഡ് ചെയ്യാനാകും അതായത് ആയിരിക്കണം ഇപ്പോൾ ഇവ രണ്ടും കൂട്ടിച്ചേർത്താൽ പിന്നെ നമുക്ക് ലഭിക്കുന്നത് ആയിരിക്കും അതിനാൽ ഇതാണ് നമുക്ക് ലഭിക്കുന്ന കണ്ടിഷൻ അല്ലെങ്കിൽ നമുക്ക് എന്ന് എഴുതാം ഇപ്പോൾ ഇത് തീർച്ചയായും സംഭവിച്ചിരിക്കേണ്ടതായ ഒരു കാര്യമാണ് അതിനാൽ മെമ്മറി സൈസ് ബിൽഡ് റിലേഷന്റെ സൈസിന്റെ സ്ക്വയർ റൂട്ടിനേക്കാൾ വലുതായിരിക്കണം ഇപ്പോൾ ഇത് സംഭവിക്കുകയാണെങ്കിൽ ഒരൊറ്റ പാർട്ടീഷൻ മതിയാകുന്നതാണ് ഇത് എങ്കിൽ എന്നിരുന്നാലും അത് സംഭവിക്കുന്നില്ല എങ്കിൽ അപ്പോൾ റിക്കർസീവ് പാർട്ടീഷൻ എന്ന തന്ത്രം ഉപയോഗിക്കേണ്ടതുണ്ട് റിക്കർസീവ് പാർട്ടീഷന്റെ അവബോധം നമ്മൾ കണ്ട എക്സ്ടെർണൽ മെർജ് സോർട്ടിനു സമാനമാണ് അതായത് ഒരു പാസിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു പാസിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്ത് തുടർന്ന് കാര്യങ്ങൾ അടുത്ത പാസിലേക്ക് നിയോഗിക്കപ്പെടുന്നു അതിനാൽ അതേ കാര്യം ഇത് ചെയ്തില്ലെങ്കിൽ അതിനാൽ തുടക്കത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നാൽ എന്ന് വരുന്ന രീതിയിൽ ns തിരഞ്ഞെടുക്കുന്നു എന്നിട്ട് ഓരോ പാർട്ടീഷനും അല്ലെങ്കിൽ പാർട്ടീഷനുകളും ആദ്യം നിർമ്മിക്കും അതിനാൽ പാർട്ടീഷൻ ചെയ്യുന്നത് ആദ്യ ലെവലിലാണ് എന്നാൽ ഇപ്പോൾ ഈ പാർട്ടീഷനുകൾ ഓരോന്നും മെമ്മറിയിൽ ഫിറ്റ് ചെയ്യാൻ കഴിയില്ല അതിനാൽ ഈ ഓരോ പാർട്ടീഷനും വീണ്ടും റീപാർട്ടീഷൻ ചെയ്യപ്പെടുന്നു ഇത് അവസാനം വരെ തുടരുന്നു പാർട്ടീഷനുകൾ മെമ്മറിയിൽ ഫിറ്റ് ചെയ്യാൻ കഴിയുന്നതുവരെ തുടരുന്നു അതിനാൽ ഇത് മെമ്മറിയിലേക്ക് ഫിറ്റ് ആവുന്നത് വരെ ഇത് തുടരുന്നു അതാണ് റിക്കർസീവ് പാർട്ടീഷൻ ചെയ്യുന്നത് അതിനാൽ ഇതാണ് പ്രധാന കാര്യം ഇത് മെമ്മറിയിൽ ഫിറ്റ് ആവണം ഒരു ഹൈബ്രിഡ് ഹാഷ് ജോയിൻ ഉണ്ട് ഇത് ആദ്യ പാർട്ടീഷൻ നിലനിർത്തുന്നു അതിനാൽ ഇത് നല്ലതാണ് ഇപ്പോൾ ഈ ഹാഷ് ജോയിൻ സ്ട്രാറ്റജിയുടെ കോസ്ററ് വിശകലനം ചെയ്യുക എന്നതാണ് പ്രധാന കാര്യം അല്ലെങ്കിൽ അത് റിക്കർസീവ് പാർട്ടീഷനിംഗ് മുതലായവ ആകാം അതിനാൽ r എന്ന റിലേഷനിൽ bi ബ്ലോക്കുകൾ അടങ്ങിയിരിക്കുന്നു അതിനാൽ തുടക്കത്തിൽ റിലേഷൻ r റീഡ് ചെയ്യുവാൻ bi ട്രാൻസ്ഫറുകൾ ആവശ്യമാണ് ഇപ്പോൾ പാർട്ടീഷനിങ്ങിന് ശേഷമുള്ള മൊത്തം ബ്ലോക്കുകളുടെ എണ്ണം അതിനാൽ ഇത് റിലേഷൻ r പാർട്ടീഷൻ ചെയ്യാൻ ശ്രമിക്കുന്നു അതിനാൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ ഇതാണ് അതിനാൽ bi ട്രാൻസ്ഫറുകൾ റീഡിങ്ങിനായി റീഡ് ചെയ്യുന്നു ഇപ്പോൾ പാർട്ടീഷനിംഗ് പൂർത്തിയായ ശേഷം ഇത് bin ബ്ലോക്കുകൾ ഉണ്ടാക്കിയേക്കാം കാരണം ഇതിൽ ഓരോന്നും ഒരു അധിക ട്യൂപ്പിൾ മാത്രമാണ് അതിനാൽ ഇത് ബ്ലോക്കിൽ ഫിറ്റ് ആവുന്നില്ല അതിനാൽ അവിടെ bi n ഉണ്ടാകാം അതിനാൽ എന്തായിരിക്കാം സംഭവിക്കുക എന്നാൽ ഇത് തിരിച്ച് റൈറ്റ് ചെയ്യുകയും തുടർന്ന് റീഡ് ചെയ്യുകയും വേണം കാരണം ഓരോ പാർട്ടീഷനും റീഡ് ചെയ്യപ്പെടാൻ പോകുന്നു അതിനാൽ ഇത് 2bin ഉപയോഗിക്കുന്നു പിന്നെ അവിടെ ഈ bi ഉണ്ട് അതിനാൽ നമ്മൾ ഈ രണ്ട് സംഖ്യകളും കൂട്ടുകയാണെങ്കിൽ ഓരോ പാർട്ടീഷനും ഇത് 3bi2n ആണ് അത് ട്രാൻസ്ഫെറുകളുടെ എണ്ണമാണ് ഇപ്പോൾ ട്രാൻസ്ഫെറുകളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ആശങ്കപ്പെടുന്നത് അതിനാൽ ഇതാണ് ഓരോ i എന്ന റിലേഷനും അതിനാൽ മൊത്തം ട്രാൻസ്ഫെറുകളുടെ എണ്ണം 3brbs4n ആണ് ഇത് പ്രാരംഭ ഘട്ടത്തിന് ആവശ്യമായ മൊത്തം ട്രാൻസ്ഫെറുകളുടെ എണ്ണമാണ് അല്ലെങ്കിൽ വെറും പ്രാരംഭ ഘട്ടത്തിന് ആവശ്യമായത് അതിനാൽ അതേ കാര്യം ഉപയോഗിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ സീക്കുകളുടെ എണ്ണം എന്താണ് ഇത് റീഡ് ചെയ്യുന്നതിനുള്ള സീക്കുകളുടെ എണ്ണം പാർട്ടീഷൻ ഉണ്ടാക്കുന്നതിനുള്ള വീണ്ടും bb ബ്ലോക്കുകൾ മെമ്മറിയിൽ ഫിറ്റ് ആവുന്നു എന്ന് കരുതുക അതിനാൽ bb ബ്ലോക്കുകൾ അതിനാൽ മെമ്മറീസ് bb ബ്ലോക്കുകളിൽ ആണ് ഓരോ റിലേഷനിൽ നിന്നും ഉള്ള bb ബ്ലോക്കുകൾ മെമ്മറിയിൽ ഫിറ്റ് ആവുന്നു അതിനാൽ അവയെല്ലാം റീഡ് ചെയ്യാൻ ആവശ്യമായ സീക്കുകൾ ഉണ്ട് അതിനാൽ ഇത് റീഡിങ്ങിനുള്ളതാണ് തുടർന്ന് സീക്കുകൾ റൈറ്റിംഗിനും അതിനാൽ n പാർട്ടീഷനുകൾ റീഡ് ചെയ്യാൻ n സീക്കുകൾ ആവശ്യമാണ് കാരണം ഓരോ പാർട്ടീഷനും വെവ്വേറെയാണ് n പാർട്ടീഷനുകൾ റീഡ് ചെയ്യാൻ n സീക്കുകൾ ആവശ്യമാണ് അതിനാൽ ആവശ്യമായ മൊത്തം സീക്കുകളുടെ എണ്ണം ആണ് ഇതാണ് ഈ രണ്ട് പദങ്ങളും പിന്നെ ഈ ഉത്തരവും പ്ലസ് 2 എൻ ഈ ഹാഷ് ജോയിൻ ചെയ്യുന്നതിന് ആവശ്യമായ മൊത്തം സീക്കുകളുടെ എണ്ണമാണിത് ഇപ്പോൾ ഇത് തീർച്ചയായും അവിടെ റിക്കർസീവ് പാർട്ടീഷനിംഗ് ഇല്ലെന്നു അനുമാനിക്കുന്നു കാരണം നിങ്ങൾ ഒരിക്കൽ റീഡ് ചെയ്തുകഴിഞ്ഞാൽ ഈ n പാർട്ടീഷനുകൾ റീഡ് ചെയ്യുന്നത് ഹാഷ് ജോയിൻ ചെയ്യാൻ പര്യാപ്തമാണ് നിങ്ങൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം ഔട്ട്പുട്ട് കോസ്റ്റ് പരിഗണിക്കപ്പെടുന്നില്ല എന്നതാണ് അതിനാൽ ഔട്ട്പുട്ട് ഡിസ്കിലേക്ക് റൈറ്റ് ചെയ്യാൻ ഡിസ്കിലേക്ക് ഔട്ട്പുട്ട് ഫ്ലഷ് ചെയ്യുന്നതിന് കുറച്ച് കോസ്റ്റ് ആവശ്യമായി വരുന്നതാണ് പക്ഷേ അത് പരിഗണിക്കപ്പെടുന്നില്ല സാധാരണയായി കൺസോളിലോ മറ്റേതെങ്കിലും രീതിയിലോ യൂസെറിന് ഔട്ട്പുട്ട് തിരികെ നൽകുമെന്ന് കരുതപ്പെടുന്നു ഹാഷ് ജോയിനിന്റെ കോസ്റ്റിലേക്കു മടങ്ങിവരുമ്പോൾ മുമ്പത്തെ കേസ് റിക്കർസീവ് പാർട്ടീഷനിംഗ് ഇല്ലെന്നു അനുമാനിക്കുകയായിരുന്നു എന്നിരുന്നാലും റിക്കർസീവ് പാർട്ടീഷനിംഗ് ആവശ്യമാണ് എങ്കിൽ അപ്പോൾ സ്ഥിതി അല്പം വ്യത്യസ്തമാണ് നമുക്ക് ഇത് താഴെ പറയുന്ന രീതിയിൽ വിശകലനം ചെയ്യാം അതിനാൽ പാസുകളുടെ എണ്ണം ആദ്യം നൽകേണ്ടത് ആവശ്യമായ പാസുകളുടെ എണ്ണമാണ് അതാണ് ആദ്യത്തെ പ്രധാന കാര്യം അത് ആണ് കാരണംM എന്നത് മെമ്മറി സൈസ് ആണ് അതിനാൽ അത്രയും പാസുകൾ ആവശ്യമാണ് ഇപ്പോൾ ലളിതവൽക്കരണത്തിനായി നമ്മൾ ഹാഫ് ഫിൽ പാർട്ടീഷനുകൾ അവഗണിക്കുകയാണെങ്കിൽ അതിനാൽ മൊത്തം ട്രാൻസ്ഫെറുകളുടെ എണ്ണം ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട് കാരണം ഈ ഓരോ പാസിലും മുഴുവൻ റിലേഷനും റീഡ് ചെയ്യപ്പെടുന്നു അതിനാൽ ഇത് തീർച്ചയായും കൂടാതെ s ന് സമാനമായ ഒരു പദമുണ്ട് കൂടാതെ നിങ്ങളുടെ br bs എന്നിവയ്ക്കും ഒടുവിൽ രണ്ട് പാർട്ടീഷനുകളും എല്ലാം റീഡ് ചെയ്യുന്നു അതിനാൽ ആകെ സംഖ്യയുണ്ട് ഇത് ട്രാൻസ്ഫറുകൾക്കായുള്ളതാണ് ഇതാണ് ആവശ്യമായ മൊത്തം ട്രാൻസ്ഫറുകളുടെ എണ്ണം കൂടാതെ ആവശ്യമായ മൊത്തം സീക്കുകളുടെ എണ്ണം br നു പകരം brbb ആയിരിക്കും അത്രയും സീക്കുകൾ ആവശ്യമാണ് അല്ലാത്തപക്ഷം ഇത് അതേ ഫോർമുലയാണ് അതിനാൽ 2br കൂടി ഞാൻ ഹാഫ് ഫിൽ പാർട്ടീഷൻ അവഗണിക്കുകയാണെന്ന് ഒരിക്കൽ കൂടി എടുത്തുകാണിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഹാഫ് ഫിൽ പാർട്ടീഷനുകളില്ലെന്ന് ഞാൻ അനുമാനിക്കുന്നു അതിനാൽ എല്ലാ പാർട്ടീഷനുകളും നന്നായി പ്രവർത്തിക്കുന്നു തീർച്ചയായും ഇത് സംഭവിച്ചേക്കില്ല അതിനാൽ പ്ലസ് n ഈ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അതിനാൽ ഇത് പ്ലസ് 2n അതിനാൽ അത്രയും സീക്കുകൾ ആവശ്യമാണ് ഇതാണ് റിക്കർസീവ് പാർട്ടീഷനിങ്ങിന് കാരണം ഇതാണ് റിലേഷന് ആവശ്യമായ പാസുകളുടെ എണ്ണം റിലേഷൻ i പാർട്ടീഷൻ ചെയ്യുന്നതിന് എന്നാൽ ഇത് ഒരു പാസിൽ ചെയ്യാൻ കഴിയില്ല അതാണ് പൂർണമായ സാരാംശം അതിനാൽ ഈ ഘടകങ്ങളിൽ ഓരോന്നിനും ഒരു അധിക കോസ്റ്റ് ഉണ്ട് ഇത് പാസുകളുടെ എണ്ണമാണെങ്കിൽ ഈ ഓരോ പാസിനും എല്ലാം റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ഇതാണ് ഒരു റിക്കർസീവ് പാർട്ടീഷനിങ്ങിന്റെ ആശയം അതിനാൽ നമ്മൾ ഇതുവരെ ചെയ്തതിന്റെ ഒരു സ്റ്റോക്ക് നമുക്ക് എടുക്കാം അതിനാൽ നമ്മൾ സെലെക്ഷൻ കൈകാര്യം ചെയ്തു നമ്മൾ സോർട്ടിംഗ് കൈകാര്യം ചെയ്തു നമ്മൾ ജോയിൻ കൈകാര്യം ചെയ്തു അതിനാൽ നമ്മൾ ഇതുവരെ കൈകാര്യം ചെയ്ത മൂന്ന് പ്രധാന പ്രവർത്തനങ്ങൾ ഇവയാണ് മറ്റ് ചില പ്രവർത്തനങ്ങൾ ഉണ്ട് ആദ്യ പ്രവർത്തനം കോംപ്ലക്സ് ജോയിൻ ആണ് അതിനാൽ എന്താണ് കോംപ്ലക്സ് ജോയിൻ അതിനാൽ ജോയിൻ കണ്ടിഷൻ ഒരു വിഘടനം അല്ലെങ്കിൽ സംയോജനമാണ് മുതലായവ അതിനാൽ വിഘടനം അല്ലെങ്കിൽ ഒരു സംയോജനം ഇത് ഒരു ആട്രിബ്യൂട്ടിനോട് മറ്റൊരു ആട്രിബ്യൂട്ട് ജോയിൻ ചെയ്യുന്ന അത്ര ലളിതമല്ല അതിനാൽ കുറച്ചുകൂടി സങ്കീർണ്ണമായ പ്രെഡിക്കേറ്റ് അവിടെ ഉണ്ട് പ്രെഡിക്കേറ്റ് കുറച്ചുകൂടി സങ്കീർണ്ണമാണ് ഇപ്പോൾ തീർച്ചയായും ബ്ലോക്ക് നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ പ്രയോഗിക്കാൻ കഴിയും കാരണം ബ്ലോക്ക് നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ പ്രെഡിക്കേറ്റ് എന്താണെന്നതിനെ ആശ്രയിക്കുന്നില്ല ഇത് രണ്ട് ട്യൂപ്പിളുകൾ എടുത്ത് ജോയിൻ കണ്ടിഷൻ പ്രയോഗിക്കുന്നു അതിനാൽ വിഘടനവും സംയോജനവും ഇക്വാലിറ്റിയെ അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിൽ ഇത് എല്ലായ്പ്പോഴും ചെയ്യാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഈ ഹാഷ് ജോയിൻ അല്ലെങ്കിൽ മെർജ് ജോയിൻ ഇക്വാലിറ്റിയെ ആശ്രയിച്ച് ചെയ്യാം തുടർന്ന് ആ ഇൻഡെക്സുകൾ യൂണിയനും ഇന്റർസെക്ഷനും ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഇത് വിഘടനാണോ സംയോജനമാണോ എന്നതിനെ ആശ്രയിച്ച് നിങ്ങളുടെ മെർജ് ജോയിനിന് അല്ലെങ്കിൽ ഹാഷ് ജോയിനിന് മുകളിൽ യൂണിയനോ ഇന്റർസെക്ഷനോ ചെയ്യാം അതിനാൽ അത് കൈകാര്യം ചെയ്യാൻ കഴിയും അതിനാൽ ഇതാണ് കോംപ്ലക്സ് ജോയിനിനെക്കുറിച്ച് ഡാറ്റാബേസ് ചെയ്യേണ്ട മറ്റൊരു സുപ്രധാന പ്രവർത്തനമുണ്ട് ചിലപ്പോൾ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് എലിമിനേഷൻ എന്ന് വിളിക്കുന്നു സ്വതവേ SQL ഒരു മൾട്ടി സെറ്റ് ആണെന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ റിലേഷണൽ അൽജിബ്ര സെറ്റ് ആണ് കൂടാതെ ഒരു പ്രത്യേക കീവേഡ് വ്യക്തമാക്കി ഒരു സെറ്റ് സമർപ്പിക്കാൻ SQL നോട് ആവശ്യപ്പെടുന്ന ഒരു മാർഗമുണ്ട് അത് ചെയ്തുകഴിഞ്ഞാൽ അത് പ്രധാനമായും എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാൽ ഡ്യൂപ്ലിക്കേറ്റുകൾ കണ്ടെത്തി അവ ഇല്ലാതാക്കുന്നു അതിനാൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് എലിമിനേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യം മനസ്സിൽ വരുന്നത് ഹാഷിംഗ് ആണ് ഹാഷിംഗ് ചെയ്യാൻ കഴിയും അതിനാൽ കണ്ടെത്തുന്നതിന് എല്ലാ ട്യൂപ്പിളുകളും ഹാഷ് ചെയ്യാവുന്നതാണ് തുടർന്ന് രണ്ട് ട്യൂപ്പിളുകളും ഒരേ ലൊക്കേഷനിലേക്ക് ഹാഷ് ചെയ്യുമ്പോഴെല്ലാം അവ നിർവഹിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാൻ അവ ആട്രിബ്യൂട്ട് ബൈ ആട്രിബ്യൂട്ട് എന്ന രീതിയിൽ പരിശോധിക്കാവുന്നതാണ് അത് ചെയ്യാനുള്ള ചെറിയ അംഗീകൃതമല്ലാത്ത മറ്റൊരു മാർഗ്ഗം സോർട് ആണ് തുടർന്ന് സോർട്ടഡ് രീതിയിൽ പോകുക അതിനാൽ ഓരോ ട്യൂപ്പിളും അടുത്ത ട്യൂപ്പിളുമായി താരതമ്യം ചെയ്യുന്നു അതിനാൽ ഇവയാണ് ഡ്യൂപ്ലിക്കേറ്റ് എലിമിനേഷൻ ചെയ്യുന്നതിനുള്ള രണ്ട് വഴികൾ അതിനാൽ ഡ്യൂപ്ലിക്കേറ്റ് എലിമിനേഷന്റെ വിശകലനം ഹാഷിംഗ് അല്ലെങ്കിൽ സോർട്ടിങ് ചെയ്യുന്നതുപോലെയാണ് അതിനാൽ അത് ഒന്നുതന്നെയാണ് തുടർന്ന് റിലേഷണൽ ആൾജിബ്രയും എസ്ക്യുഎല്ലും കൈകാര്യം ചെയ്യേണ്ട ചില സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട് അതിനാൽ ചെയ്യാൻ കഴിയുന്ന വ്യത്യസ്ത സെറ്റ് ഓപ്പറേഷനുകൾ എന്തൊക്കെയാണ് യൂണിയൻ ഇന്റർസെക്ഷൻ ഡിഫറെൻസ് അത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ റിലേഷനുകൾ ഇതിനകം തന്നെ സോർട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ് കാരണം ശേഷം ഇത് രണ്ട് റിലേഷനുകൾ അല്ലെങ്കിൽ രണ്ട് സെറ്റുകൾ തുടങ്ങിയവ സ്കാൻ ചെയ്യേണ്ടതുണ്ട് ഇത് ക്രമത്തിൽ സ്കാൻ ചെയ്യേണ്ടതുണ്ട് ശേഷം ഇത് അപ്ലൈ ചെയ്യാൻ കഴിയും ഇത് ചെയ്യുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം സെറ്റുകളിലൊന്നിന്മേൽ ഇൻഡെക്സ് നിർമ്മിക്കാം ഒരു സെറ്റിന്മേൽ ഇൻഡെക്സ് നിർമ്മിക്കാം മറ്റേത് മറുവശത്ത് ടെസ്റ്റ് ചെയ്യാം അതിനാൽ ഈ സെറ്റ് ഓപ്പറേഷൻസ് ജോയിൻ പോലെയാണെന്നും ആശയം രണ്ട് റിലേഷനുകൾക്ക് പകരം രണ്ട് സെറ്റുകളാണെന്നും നിങ്ങൾ കാണുന്നു എന്നാൽ ഇന്റർസെക്ഷൻ യൂണിയൻ ഓപ്പറേഷൻസ് ഒരേ തത്ത്വചിന്ത ഉപയോഗിച്ച് ഒരേ തത്ത്വചിന്തയിൽ ചെയ്യുന്നു അതിനാൽ ആ കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ കഴിയും അടുത്ത പ്രധാന ഓപ്പറേഷൻ അഗ്ഗ്രിഗേഷൻ ആണ് ഇപ്പോൾ ഗ്രൂപ്പിംഗ് ഉപയോഗിച്ചോ അല്ലാതെയോ അഗ്ഗ്രിഗേഷൻ നടത്താം അതിനാൽ ഇത് ഗ്രൂപ്പു ചെയ്യാതെ ആണെങ്കിൽ അത് എളുപ്പമാണ് കാരണം നിങ്ങൾക്കു എല്ലാ ട്യൂപ്പിളുകളും പരിശോധിച്ച് അഗ്ഗ്രിഗേഷൻ ഫങ്ക്ഷൻ കണ്ടെത്താവുന്നതാണ് അതിനാൽ കൂടുതൽ രസകരമായത് ഗ്രൂപ്പിംഗ് ഉപയോഗിച്ചുള്ള അഗ്ഗ്രിഗേഷൻ ആണ് അതിനാൽ ഗ്രൂപ്പിംഗ് എങ്ങനെ ചെയ്യാമെന്നതാണ് പ്രധാന ഭാഗം തീർച്ചയായും ആദ്യത്തേതും ഏറ്റവും അടിസ്ഥാനപരവുമായ ആശയം ഓരോ ഗ്രൂപ്പിനും ഹാഷിംഗ് ഉപയോഗിക്കുക എന്നതാണ് തുടർന്ന് ഓരോ ഗ്രൂപ്പും സ്വയമേ ഒരു എന്റിറ്റി അല്ലെങ്കിൽ ഒരു റിലേഷൻ ആയി മാറുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനെ സ്വയമേ ഒരു റിലേഷൻ പോലെ കണക്കാക്കാം എന്നാണ് തുടർന്ന് അത് അഗ്ഗ്രിഗേറ്റ് ചെയ്യാനാവും അതാണ് ഗ്രൂപ്പിങ് ഉപയോഗിച്ചുള്ള അഗ്ഗ്രിഗേഷൻ ഈ ഗ്രൂപ്പിലേക്ക് റിലേഷൻ പാർട്ടീഷൻ ചെയ്യുന്നതിന് ഹാഷിംഗ് ആവശ്യമാണ് നമ്മൾ വിട്ടുപോയ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഔട്ടർ ജോയിൻ അതിനാൽ നമ്മൾ ഇതുവരെ സംസാരിച്ചതെല്ലാം ഇന്നർ ജോയിനിനെക്കുറിച്ചായിരുന്നു അതിനാൽ ഓപ്പറേഷനുകൾ ഇന്നർ ജോയിൻ ആണെന്ന് നമ്മൾ അനുമാനിക്കുകയായിരുന്നു ഇപ്പോൾ അത് ഔട്ടർ ജോയിൻ ആണ് നിങ്ങളുടെ tr ts എന്നിവ ഇക്വാലിറ്റിയുമായി യോജിക്കുന്നില്ലെങ്കിലും ഒരുപക്ഷെ ഇത് ഒരു ലെഫ്റ് ഔട്ടർ ജോയിൻ ആണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ tr ഉം ഔട്ട്പുട്ട് ആയിരിക്കണം അതിനാൽ അതാണ് ഔട്ടർ ജോയിന്റെ പൂർണമായ ഉപയോഗം അതിനാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം അതിനാൽ ഒരിക്കൽക്കൂടി ബ്ലോക്ക് നെസ്റ്റഡ് ലൂപ്പ് ജോയിനിന് ഒരു പരിഷ്ക്കരണവും ആവശ്യമില്ല കാരണം ഇത് ഏറ്റവും സാധാരണമായ അൽഗോരിതം ആണ് tr ts എന്നിവ മാച്ച് ആവുന്നു എങ്കിൽ അത് ഔട്ട്പുട്ട് ചെയ്യുന്നു അല്ലാത്തപക്ഷം അനുയോജ്യമായ നൾ വാല്യൂസ് തുടങ്ങിയവ ഉപയോഗിച്ച അത് പാഡ് ചെയ്യുന്നു മെർജ് ജോയിനിനു എന്താണ് ചെയ്യാനാവുക എന്നാൽ അത് ഒരു ലെഫ്റ് ഔട്ടർ ജോയിൻ ആണെന്ന് കരുതുക അതിനാൽ r സ്കാൻ ചെയ്യുമ്പോൾ അതിനാൽ s ൽ മാച്ചിങ് ട്യൂപ്പിൾ ഉണ്ടെങ്കിൽ നല്ലതാണു അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് മാച്ചിങ് ട്യൂപ്പിൾ ഇല്ലെങ്കിൽ അപ്പോഴും ഇതാണ് ഔട്ട്പുട്ട് അതിനാൽ r സ്കാൻ ചെയ്യുമ്പോൾ അത് r വശത്തുള്ള എല്ലാം ഔട്ട്പുട്ട് ആണെന്ന് ഉറപ്പാക്കുന്നു അതിനാൽ മെർജ് ജോയിൻ കൈകാര്യം ചെയ്യാനാവുന്നതാണ് ചോദ്യം എന്താണെന്നാൽ അവിടെ ഒരു ലെഫ്റ് ജോയിൻ ഉണ്ടെങ്കിൽ അത് ഒരു ലെഫ്റ്റ് ജോയിൻ ആണെന്ന് കരുതുക അപ്പോൾ ചോദ്യം എന്താണെന്നാൽ ഏതായിരിക്കണം ഹാഷ് ജോയിനിന്റെ ബിൽഡ് റിലേഷൻ ഏതായിരിക്കണം ഹാഷ് ജോയിനിന്റെ പ്രോബ് റിലേഷൻ എന്നതാണ് അതിനാൽ ഇത് ഒരു ഹാഷ് ജോയിൻ ആണെന്ന് കരുതുക അതിനാൽ ഹാഷ് ജോയിനിന് അതേ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും ഇത് ഒരു ലെഫ്റ് തിങ് ആണെന്ന് കരുതുക ഈ r ൽ ഒന്ന് പ്രോബ് റിലേഷൻ ആയി ഉപയോഗിക്കാം അല്ലെങ്കിൽ s ഒരു പ്രോബ് റിലേഷൻ ആയി ഉപയോഗിക്കാം അതിനാൽ ഏതാണ് പ്രോബ് റിലേഷൻ ആയി ഉപയോഗിക്കേണ്ടത് എന്നതാണ് ചോദ്യം ഇത് ഒരു ലെഫ്റ് ഔട്ടർ ജോയിൻ ആണെങ്കിൽ r ആയിരിക്കണം പ്രോബ് റിലേഷൻ ആയി ഉപയോഗിക്കേണ്ടത് കാരണം ബിൽഡിനായി s ഉപയോഗിക്കാനാകും കൂടാതെ r ൽ നിന്നുള്ള എല്ലാ ട്യൂപ്പിളുകളും പ്രോബ് ചെയ്യപ്പെടുന്നു അത് മാച്ച് ആവുന്നു എങ്കിൽ അത് ഔട്ട്പുട്ട് ആണ് അത് മാച്ച് ആവുന്നില്ലെങ്കിലും r സൈഡ് മതിയായതാണ് r സൈഡ് ലളിതമായി ഔട്ട്പുട്ട് ആകുന്നു ഇതെല്ലാം ലെഫ്റ് ഔട്ടർ ജോയിനിന് മതിയായതാണ് അതുപോലെ തന്നെ റൈറ്റ് ഔട്ടർ ജോയിനിനും ഇതേ തന്ത്രം ഉപയോഗിക്കാം എന്നിരുന്നാലും ഓപ്പറേഷൻ ഒരു ഫുൾ ഔട്ടർ ജോയിൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും അതിനാൽ തീർച്ചയായും ഫുൾ ഔട്ടർ ജോയിനിനായി മെർജ് ജോയിൻ എളുപ്പത്തിൽ ഉപയോഗിക്കാനാകുന്നതാണ് കാരണം എല്ലാം ഔട്ട്പുട്ട് ആണ് ഹാഷ് ജോയിനിനുള്ളത് കുറച്ചുകൂടി സങ്കീർണ്ണമാണ് അപ്പോൾ ഈ പ്രോബും ബിൽഡ് റിലേഷനും പൂർണ്ണമായും ഉപയോഗപ്രദമല്ലെന്ന് നിങ്ങൾക്ക് കാണാനാകും കാരണം സൂക്ഷിച്ചിരിക്കുന്ന ഒരു s ഉണ്ടെന്ന് കരുതുക s ഔട്ട്പുട്ട് ആയിരുന്നോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും അതിനാൽ പൊതുവേ ഹാഷ് ജോയിൻ അൽഗോരിതം ഫുൾ ജോയിനിനായി ഉപയോഗിക്കാറില്ല എന്നിരുന്നാലും എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നാൽ ഇനിപ്പറയുന്നവയാണ് s ലെ ഓരോ റിലേഷനും s ലെ ഓരോ ട്യൂപ്പിളിനും ഒരു മാർക്കർ ഉണ്ട് അതിനാൽ അതിനാൽ s പ്രോബ് ചെയ്യപ്പെടുമ്പോൾ r ലെ ട്യൂപ്പിളുകളിലൊന്ന് അത് പ്രോബ് ചെയ്യുന്നു ശേഷം ഇതിനെ 1 എന്ന് അടയാളപ്പെടുത്തുന്നു അല്ലാത്തപക്ഷം സ്ഥിരസ്ഥിതിയായി ഇത് 0 ആണ് പാസിലുള്ള മുഴുവൻ ഔട്ട്പുട്ടിന്റെയും അവസാനം ഈ s ഏറ്റെടുക്കുകയും 0 ആയതെല്ലാം ഔട്ട്പുട്ട് ആകുകയും ചെയ്യുന്നു ഇതെന്തുകൊണ്ടാണ് കാരണം ഇത് 0 ആണെങ്കിൽ അതായത് r ൽ നിന്ന് ആരും അതിനെ പിടിച്ചെടുത്തിട്ടില്ലെങ്കിൽ r ലെഫ്റ് ഔട്ടർ ജോയിൻ ആണെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ അത് ലെഫ്റ് ഔട്ടർ ജോയിൻ രീതിയിലാണ് ചെയ്യുന്നത് അതിനാൽ r ൽ നിന്നുള്ളതെല്ലാം യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്നു എന്നാൽ ഈ s കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഇതാണ് ഔട്ട്പുട്ടിങ് പക്ഷേ ഇത് കുറച്ചുകൂടി സങ്കീർണ്ണവും കൂടാതെ വളരെ കാര്യക്ഷമമല്ലാത്തതുമായ അൽഗോരിതം ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇത് പൊതുവെ ഒഴിവാക്കുന്നു ലളിതമായി ഒരു മെർജ് ജോയിൻ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ ആണ് യഥാർത്ഥത്തിൽ ഇവയെല്ലാം തിരഞ്ഞെടുക്കുന്നത് കാരണം അത് ഏറ്റവും സാധാരണമാണ് ഔട്ടർ ജോയിനിൽ സംയോജനം വിഘടനം തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അൽഗോരിതം എത്ര സങ്കീർണ്ണമാകുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതോടെ ക്വയരി പ്രോസസ്സിംഗിലെ മൊഡ്യൂൾ പൂർത്തിയാകുന്നു കൂടാതെ വ്യത്യസ്ത ക്വയരി അൽഗോരിതങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും മറ്റും നമ്മൾ കണ്ടു അടുത്തതായി നമ്മൾ ക്വയരി ഒപ്റ്റിമൈസേഷനെക്കുറിച്ച് പഠിക്കുന്നതാണ്